സമഗ്ര സമവാക്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ സംഗ്രഹിക്കുന്നതാണ് അവസാന മൊഡ്യൂൾ ഇതായിരിക്കും രൂപരേഖ നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് പ്രധാന രീതികൾ ഉപരിതലവും വോളിയവും ഇന്റഗ്രലുകൾ Suface Volume Integral ആണ് അതിനാൽ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾ പട്ടികപ്പെടുത്തും ഇവിടെ പുതിയ ആശയം RCS എന്ന് ചുരുക്കി വിളിക്കപ്പെടുന്ന റഡാർ ക്രോസ് സെക്ഷന്റേതായിരിക്കും അതിനാൽ ഞങ്ങൾ പഠിച്ച എല്ലാ സിദ്ധാന്തങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെയാണ് ഒടുവിൽ ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും അത് ഉപയോഗപ്രദമായ എന്തെങ്കിലും കണക്കാക്കാൻ ഉപയോഗിക്കുക ഈ ശരിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില കമ്പ്യൂട്ടേഷണൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വാക്ക് അതിനാൽ ഞങ്ങൾ ഉപരിതലത്തിലേക്കും ഉപരിതലവും വോളിയവും തമ്മിലുള്ള വ്യത്യാസത്തിലേക്കും പോകുന്നതിനുമുമ്പ് PEC കളുടെ സാന്നിധ്യത്തിൽ ഉപരിതല അവിഭാജ്യ സമവാക്യങ്ങളെക്കുറിച്ച് ഒരു നിമിഷം വേഗത്തിൽ മാറ്റിവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എന്താണ് PEC ഒരു PEC ഒരു തികഞ്ഞ വൈദ്യുത ചാലകമാണ് അതിനാൽ ഒരു പെർഫെക്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ എന്നത് ഒരു പെർഫെക്റ്റ് മെറ്റൽ പോലെയാണ് നിങ്ങൾ വിളിക്കുക അപ്പോൾ ഒരു തികഞ്ഞ ലോഹത്തിന്റെ സ്വത്ത് എന്താണ് ആ കണക്റ്റിവിറ്റി അനന്തമാണ് അതിനാൽ ചാർജുകൾ ഉപരിതലത്തിലേക്ക് പോകുന്ന വോളിയത്തിൽ വസിക്കാതിരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതെല്ലാം പഠിച്ചു വിദ്യാർത്ഥി ഉപരിതലം ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോർമുലേഷനിൽ ഇത് ഒരു യഥാർത്ഥ ഫോർമുലേഷനായിരുന്നു വേരിയബിളുകൾക്ക് ഞങ്ങൾ ശാരീരിക വ്യാഖ്യാനം നൽകിയിരുന്നു അതിനാൽ ഞാൻ TM ധ്രുവീകരണം നോക്കിയപ്പോൾ എന്റെ ഫൈ എന്തായിരുന്നു എന്റെ ഫിസിക്കൽ അളവ് എന്തായിരുന്നു വിദ്യാർത്ഥി ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ശരിയാണ് പ്രത്യേകിച്ച് E z ഘടകം ശരിയാണ് ഞങ്ങൾ ഒരു വ്യാഖ്യാനം നൽകിയിരുന്നു ഞങ്ങൾ എന്താണ് ചെയ്തത് അതിന് ആനുപാതികമാണ് ഞങ്ങൾ അത് പ്രവർത്തിച്ചു അത് ഉപരിതലത്തിലെ H ടാൻജെൻഷ്യലിന് ആനുപാതികമായിരുന്നു ശരി അതിനാൽ ഞങ്ങൾ ഈ സമവാക്യങ്ങളെ ടിഎം ധ്രുവീകരണത്തിൽ ഉണ്ടായിരുന്ന ടാൻജൻഷ്യൽ ഇലക്ട്രിക് കാന്തിക മണ്ഡലങ്ങളുടെ ഒരു രേഖീയ സംയോജനമായി വ്യാഖ്യാനിച്ചു അതുപോലെ നിങ്ങൾ TE ധ്രുവീകരണത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് E ടാൻജൻഷ്യൽ ലഭിക്കും അതിനാൽ കണ്ടക്ടർ നിർമ്മിച്ചതാണെങ്കിൽ ഒബ്ജക്റ്റ് ഒരു തികഞ്ഞ വൈദ്യുതചാലകത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഈ സമവാക്യങ്ങൾ എങ്ങനെയെങ്കിലും മാറ്റണം എന്നതിനാൽ നമ്മൾ അവ ഉപയോഗിക്കണമെന്ന് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അപ്പോൾ PEC യുടെ അതിർത്തി വ്യവസ്ഥകൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് ആൺകുട്ടികളിൽ ഏതെങ്കിലും പൂജ്യമോ രണ്ടും പൂജ്യമോ അല്ലയോ വിദ്യാർത്ഥി E ടാൻജൻഷ്യൽ താഴെ E ടാൻജൻഷ്യൽ അല്ലേ അതിനാൽ ഇത് എന്റെ പ്രശ്നമായിരുന്നു എന്ന് ഓർക്കുക അങ്ങനെ എന്റെ z അച്ചുതണ്ടായിരുന്ന ബോർഡിൽ നിന്ന് z പുറത്തുവരുകയായിരുന്നു പ്രതലം നിന്ന് പുറത്തേക്ക് വരുന്ന കണ്ടക്ടറിന്റെ ഉപരിതലത്തോട് ചേർന്നുള്ള സ്ഥലമാണിത് അതിനാൽ 0 ആയിരിക്കും കാരണം ഒരു തികഞ്ഞ ലോഹത്തിന്റെ ഉപരിതലത്തിൽ ഫീൽഡുകൾ എല്ലായ്പ്പോഴും എന്തായിരിക്കും വിദ്യാർത്ഥി ഇത് സാധാരണമാണ് തികച്ചും സാധാരണമാണ് അതിനാൽ ഫീൽഡുകൾ എല്ലായ്പ്പോഴും സാധാരണമാണ് പക്ഷേ അതിനാൽ TM ധ്രുവീകരണത്തിൽ E എന്നത് H xy പ്ലെയിനിൽ ആണ് അതിനാൽ TM ധ്രുവീകരണ വലതുഭാഗത്ത് z ദിശയിൽ വൈദ്യുത മണ്ഡലത്തിന്റെ ഒരു ഘടകവും ഉണ്ടാകില്ല അതിനാൽ PEC നമുക്ക് അത് 0 ന് തുല്യമാണെന്ന് പറയാം എനിക്ക് യെ കുറിച്ച് എന്തെങ്കിലും പറയാമോ നമുക്ക് ഒന്നും ശരിയായി പറയാൻ കഴിയില്ല അത് പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഒരു PEC ന് തുല്യമാണ് 0 നിങ്ങൾക്ക് മറ്റേതെങ്കിലും സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാനാകുമോ ഫൈ പൂജ്യമല്ലെങ്കിലും പൂജ്യമായ ഒരു സാധ്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ അത് ഏത് തരത്തിലുള്ള മെറ്റീരിയലായിരിക്കും വിദ്യാർത്ഥി PMC PMC അത് ശരിയാണ് വിദ്യാർത്ഥി കാന്തിക ആ സാഹചര്യത്തിൽ കാന്തിക ചാലകം 0 ആയിരിക്കും 0 ന് തുല്യമായിരിക്കില്ല ഒരു തികഞ്ഞ കാന്തിക ചാലകം എന്താണ് ഇത് ഒരു സാങ്കൽപ്പിക വസ്തുവാണ് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ മുമ്പ് നമുക്ക് ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നത് പോലെയാണ് ഇത് പക്ഷേ കാന്തിക വൈദ്യുതധാര ശരിയായിരുന്നില്ല എന്നാൽ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിന് സമമിതി നൽകാൻ ഞങ്ങൾ ഒരു കാന്തിക വൈദ്യുതധാര ചേർത്തു അതിനാൽ സമാനമായി ഞാൻ PEC യെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് പൂർണ്ണതയ്ക്കായി ഞാൻ PMC യെക്കുറിച്ചും സംസാരിക്കുന്നു ഞാൻ ചില തുല്യതാ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചാൽ അത് ഉപയോഗപ്രദമാകും അതിനാലാണ് ഞാൻ അത് ഇവിടെ പരാമർശിക്കുന്നത് കാരണം തുല്യതാ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് എനിക്ക് ഒരു സാങ്കൽപ്പികം അവതരിപ്പിക്കാൻ കഴിയും വിദ്യാർത്ഥി വൈദ്യുതി കാന്തിക പ്രവാഹം അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇത് ഒരു കുറിപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹം അപ്പോൾ ഇപ്പോൾ എന്റെ സമവാക്യ സമ്പ്രദായത്തിന് എന്ത് സംഭവിക്കും മുമ്പ് ഞാൻ ഈ പ്രതലത്തെ N സെഗ്മെന്റുകൾ ക്യാപിറ്റൽ N സെഗ്മെന്റുകൾ എന്നിങ്ങനെ വിഭജിച്ചുവെന്ന് കരുതുക അപ്പോൾ ഈ സമവാക്യത്തിൽ എത്ര വേരിയബിളുകൾ ഉണ്ടായിരുന്നു ഈ സമവാക്യ വ്യവസ്ഥയുടെ വലിപ്പം എന്താണ് വലത് ഇപ്പോൾ PEC യുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ നിന്നുള്ള എല്ലാ നിബന്ധനകളും എന്തെങ്കിലുമുണ്ടോ നമ്മൾ അതിജീവിക്കാത്തതിനെ അതിജീവിക്കും വിദ്യാർത്ഥി 0 ആയിരിക്കും ശരിയാണ് അതിനാൽ ഈ പദം ഇവിടെയും ഈ പദം ഇവിടെയും ഇവ രണ്ടുമാണ് വിദ്യാർത്ഥി 0 0 ഉം 0 ഉം വലത് അതിനാൽ ഈ രണ്ട് പദങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അതിനാൽ എനിക്ക് ഉണ്ടായിരിക്കും അതിനാൽ ഇത് എനിക്ക് ഒരു സിസ്റ്റം അവകാശം നൽകും അതിനാൽ ഒരർത്ഥത്തിൽ ഇത് പരിഹരിക്കാൻ എളുപ്പമുള്ള ഒരു പ്രശ്നമാണ് മുമ്പത്തെ സമവാക്യങ്ങളേക്കാൾ എളുപ്പമായതിന്റെ ഒരു കാരണം കൂടി പറയാമോ ഏത് പദത്തെക്കുറിച്ചാണ് എനിക്ക് വിഷമിക്കേണ്ടത് വിദ്യാർത്ഥി ഗ്രേഡ് ജി കൂടാതെ ഒരു പ്രത്യേക പ്രശ്നമുണ്ടായിരുന്നോ വിദ്യാർത്ഥി ഏകത്വം സിംഗുലാരിറ്റി കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നു എങ്ങനെ സംയോജിപ്പിക്കണം എന്നതിൽ വളരെ ശ്രദ്ധാലുവായിരിക്കുക എനിക്ക് ഒരു അല്ലെങ്കിൽലഭിക്കും എന്നാൽ ഒരു തികഞ്ഞ വൈദ്യുത ചാലകത്തിന് ആ പ്രശ്നമില്ല കാരണം ആ പദം ഇല്ലാതായതിനാൽ എനിക്ക് അവശേഷിക്കുന്നു ഒപ്പം സംയോജിപ്പിക്കാവുന്ന ഒരു സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു അതിനാൽ നിങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പൂർണ്ണമായ മെറ്റാലിക് പെരുമാറ്റത്തിലൂടെ നിങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ അർത്ഥമാക്കുന്നത് തികഞ്ഞ ഇലക്ട്രിക് കണ്ടക്ടർ ശരിയാണ് അതിനാൽ ചില അർത്ഥത്തിൽ PEC അറിയാവുന്ന നിങ്ങളുമായി ചർച്ച മുഴുവനും ആരംഭിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് എളുപ്പമുള്ള കാര്യമാണ് തുടർന്ന് അത് വൈദ്യുത വസ്തുക്കളിൽ നിർമ്മിക്കാം പക്ഷേ ഞങ്ങൾ അത് മറ്റൊരു രീതിയിൽ ചെയ്തു